എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് 1 നെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് രണ്ട് വേരിയബിളുകളുടെ ഫങ്ക്ഷനുകളുടെ ലിമിറ്റിന്റെ ഇവാല്യൂവേഷനെക്കുറിച്ച് നമ്മൾ സംസാരിക്കും മുമ്പത്തെ പ്രഭാഷണത്തിൽ xy x0y0 ലേക്ക് പോകുമ്പോൾ fxy L ന് തുല്യമാണെന്ന് നമ്മൾ കണ്ടു എപ്സിലോൺ ഡെൽറ്റ സമീപനം ഉപയോഗിച്ചാണ് ഇത് നിർവചിച്ചിരിക്കുന്നത് ഒരു യഥാർത്ഥ പോസിറ്റീവ് സംഖ്യ എപ്സിലോൺ തന്നാൽ f L എപ്സിലോണിനേക്കാൾ കുറവുള്ള വിധത്തിൽ ഒരു യഥാർത്ഥ പോസിറ്റീവ് സംഖ്യ ഡെൽറ്റ നമുക്ക് കണ്ടെത്താൻ കഴിയും ഇവിടെ x y ഡെൽറ്റ നെയ്ബർഹുഡിൽ x0 y0 ഉള്ളപ്പോൾ f x y ഉം അതിന്റെ ലിമിറ്റിങ് വാല്യൂ L ഉം തമ്മിലുള്ള വ്യത്യാസം എപ്സിലോണിനേക്കാൾ കുറവാണ് നൽകിയ നമ്പർ L ലിമിറ്റാണോയെന്ന് പരിശോധിക്കാൻ ഈ സമീപനം ഉപയോഗപ്രദമാണെന്ന് നമ്മൾ കണ്ടു എന്നാൽ ലിമിറ്റ് L എന്താണെന്ന് നമ്മൾ ഊഹിക്കണം ഇന്നത്തെ പ്രഭാഷണത്തിൽ ഈ നമ്പർ L എങ്ങനെ നേടാം എന്നതിനെക്കുറിച്ചുള്ള കൂടുതൽ പ്രായോഗിക പ്രശ്നങ്ങൾ നമ്മൾ നോക്കും ഈ നമ്പർ L ആണെന്ന് സ്ഥിരീകരിക്കുന്നതിന് എപ്സിലോൺ ഡെൽറ്റ സമീപനവും ഉപയോഗിക്കാം സിംഗിൾ വേരിയബിളിന്റെ ഒരു ഫംഗ്ഷന്റെ ലിമിറ്റ് സംസാരിക്കുമ്പോൾ ഇവിടെ ഒരു പ്രത്യേക പോയിന്റിനെ സമീപിക്കാൻ നമ്മൾക്ക് രണ്ട് പാതകളുണ്ട് നമുക്ക് വലതുവശത്ത് നിന്ന് ഈ പോയിന്റിലേക്ക് സമീപിക്കാം അല്ലെങ്കിൽ സിംഗിൾ വേരിയബിളിന്റെ ഫംഗ്ഷനുകളുടെ കാര്യത്തിൽ നമുക്ക് ഇടതുവശത്ത് നിന്ന് ഈ പോയിന്റിലേക്ക് x0 ലേക്ക് സമീപിക്കാം എന്നാൽ ഇപ്പോൾ നമുക്ക് രണ്ടോ അതിലധികമോ വേരിയബിളുകളുടെ ഫങ്ക്ഷനുകൾ ഉണ്ട് ഈ സാഹചര്യത്തിൽ ഇത് x ആക്സിസ് y ആക്സിസ് z ആക്സിസ് എന്നിവയാണെന്ന് കരുതുക xy തലം ഈ ഫംഗ്ഷന്റെ ഈ ഡൊമെയ്ൻ നമ്മൾക്ക് ഉണ്ട് ഈ പോയിന്റിലേക്ക് ഇവിടെ എത്തിച്ചേരാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെന്ന് കരുതുക ഈ പോയിന്റിനെ സമീപിക്കാൻ നിരവധി പാതകളുണ്ട് ഈ പ്രത്യേക പോയിന്റിലേക്ക് x y സമീപിക്കുമ്പോൾ ലിമിറ്റ് നേടുന്നതിന് നമുക്ക് ഏത് ദിശയിൽ നിന്നും ഈ പോയിന്റിലേക്കുള്ള ഏത് പാതയും സമീപിക്കാം സിംഗിൾ വേരിയബിളിന്റെ കാര്യത്തിൽ നമ്മൾക്ക് രണ്ട് പാതകളേ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ വലതുവശത്ത് നിന്ന് ലിമിറ്റ് പരിശോധിക്കുകയും ഇടത് വശത്ത് നിന്ന് ലിമിറ്റ് പരിശോധിക്കുകയും അവ തുല്യമാണെങ്കിൽ ലിമിറ്റ് നിലവിലുണ്ടെന്നും ലിമിറ്റ് ആ മൂല്യത്തിന് തുല്യമാണെന്നും അല്ലെങ്കിൽ ആ രണ്ട് ലിമിറ്റ്കൾ വ്യത്യസ്തമാണെങ്കിൽ ലിമിറ്റ് നിലവിലില്ല എന്നും പറയുന്നു ഈ സാഹചര്യത്തിൽ ഒരു പ്രത്യേക പോയിന്റിലേക്ക് സമീപിക്കാനുള്ള വഴികൾ നമുക്ക് അനന്തമായി ഉണ്ട് ചില പ്രത്യേക പാതയിലൂടെ ഒരു ലിമിറ്റ് കണ്ടെത്തുന്നതും ഇതാണ് ലിമിറ്റ് എന്ന് പറയുന്നതും ബുദ്ധിമുട്ടാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇത് x y ദ്വിമാന തലത്തിൽ x0y0 പോയിന്റിലേക്ക് പോകുന്നുവെന്നത് ശ്രദ്ധിക്കുക ഈ പ്രത്യേക പോയിന്റിലേക്ക് x0 y0 ചേരുന്ന അസംഖ്യമായ പാതകളുണ്ട് നിലവിലുള്ള ലിമിറ്റ് യൂണിക് ആണെന്നതിനാൽ എല്ലാ പാതകളിലും ലിമിറ്റ് തുല്യമായിരിക്കണം അതായത് ഒരു പ്രത്യേക പാതയിലൂടെ Px0 y0 പോയിന്റിനെ സമീപിച്ച് x y fxy ഫംഗ്ഷന്റെ ലിമിറ്റ് കണ്ടെത്തുന്നതിലൂടെ ലിമിറ്റ് നേടാനാവില്ല എന്നിരുന്നാലും ലിമിറ്റ് പാതയെ ആശ്രയിച്ചിരിക്കുന്നുവെങ്കിൽ രണ്ട് വ്യത്യസ്ത പാതകളിലൂടെ ലിമിറ്റ് വ്യത്യസ്തമാണെന്ന് നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ ലിമിറ്റ് നിലവിലില്ലെന്ന് നിഗമനം ചെയ്യാം രണ്ടോ അതിലധികമോ വ്യത്യസ്ത പാതകളിലൂടെ ലിമിറ്റ് തുല്യമായിരിക്കാമെങ്കിലും ആ പ്രത്യേക സംഖ്യയാണ് ലിമിറ്റ് എന്ന് നമ്മൾക്ക് നിഗമനം ചെയ്യാൻ കഴിയില്ല കാരണം ലിമിറ്റ് വ്യത്യസ്തമായിരിക്കാവുന്ന മറ്റ് പാതകളുണ്ടാകാം ചില പ്രത്യേക പാതകളിലെ ലിമിറ്റ് ഇല്ലാതിരിക്കാം എന്നാൽ രണ്ട് വ്യത്യസ്ത പാതകളിലൂടെ ലിമിറ്റ് വ്യത്യസ്തമാണെങ്കിൽ ലിമിറ്റ് നിലവിലില്ലെന്ന് നമുക്ക് പറയാൻ കഴിയും ഇപ്പോൾ x y ചില പ്രത്യേക പോയിന്റിലേക്ക് അടുക്കുമ്പോൾ fx y ന്റെ ലിമിറ്റ് കണ്ടെത്തുന്നതിനുള്ള ചില സാധ്യതകൾ കാണാം ഉദാഹരണത്തിന് x2y x4 y2 x y 00 എന്ന പോയിന്റിലേക്ക് എന്ന പാതയിലൂടെ വരുന്നു രണ്ടാമത് നമ്മൾ അതേ ഫംഗ്ഷൻ എടുക്കും x y y x2 പാതയിലൂടെ 00 ലേക്ക് പോകുന്നു 00 യെ സമീപിക്കാൻ നമ്മൾ രണ്ട് വ്യത്യസ്ത വഴികൾ തിരഞ്ഞെടുത്തു ഒരു പാത y x എന്ന നേർരേഖ രണ്ടാമത്തേത് y x2 പാത y x y x2 എന്ന രണ്ട് വ്യത്യസ്ത പാതയിലൂടെ 00 എന്ന പോയിന്റിലേക്ക് നാം അടുക്കുമ്പോൾ ഈ ഫംഗ്ഷന്റെ ലിമിറ്റ് എങ്ങനെ ആയിരിക്കും നമ്മൾ ഒറിജിനിലേക്ക് അടുക്കുന്നു ഈ സാഹചര്യത്തിൽ y x ന് തുല്യമാകുമ്പോൾ നമ്മൾ ഇവിടെ x2 ഇടും തുടർന്ന് y വീണ്ടും x ആയിരിക്കും നമുക്ക് ഇവിടെ x4 y2 റാണുള്ളത് ഇപ്പോൾ x 0 ലേക്ക് പോകുമ്പോൾ ഈ പാതയിലൂടെ ഇപ്പോൾ നമ്മൾ ഈ y നിയന്ത്രിച്ചിരിക്കുന്നത് x ന് തുല്യമാണ് അല്ലെങ്കിൽ നമ്മൾ ഇവിടെ പകരമായി y എന്നത് x ന് തുല്യമാണ് ഇപ്പോൾ x എന്നത് 0 ലേക്ക് പോകുന്നു ഈ ലിമിറ്റിന് എന്ത് സംഭവിക്കും ഇവിടെ x എന്ന ലിമിറ്റ് 0 ലേക്ക് പോകുന്നു ഇത് നമുക്ക് റദ്ദാക്കാൻ കഴിയുന്ന x2 ആണ് നിങ്ങൾക്ക് ഇപ്പോഴും x ഓവർ x2 1 ഉണ്ട് തുടർന്ന് ഈ ലിമിറ്റ് 0 ലേക്ക് പോകും ഈ പാതയിലൂടെ y ഒറിജിനോട് അടുക്കുന്ന ഈ നേർരേഖയിൽ x ന് തുല്യമാണ് നമ്മൾക്ക് ഈ ലിമിറ്റ് 0 ആയി ലഭിക്കുന്നു ഇപ്പോൾ നമ്മൾ y x2 എടുത്താൽ x 0 ലേക്ക് പോകുമ്പോൾ ഈ പാതയിലൂടെ നമുക്ക് ഈ ലിമിറ്റ് ഉണ്ട് വീണ്ടും ഈ പാത y x2 0 ലേക്ക് അടുക്കുന്നു പക്ഷേ ഈ പരാബോളിക് പാതയിലൂടെ ഇവിടെ x എന്നത് 0 ന് തുല്യവും y വീണ്ടും x2 ആണ് നമ്മൾക്ക് x പവർ 4 ഉം y സ്ക്വയർ x പവർ 4 ഉം ആണ് ഈ സാഹചര്യത്തിൽ നമ്മൾ നിരീക്ഷിച്ചത് ഇവിടെ x പവർ 4 ആയതിനാലാണ് നിങ്ങൾക്ക് ഇവിടെ 2 x പവർ 4 ഉണ്ട് ഈ ലിമിറ്റ് ½ ആയിരിക്കും ഈ പാതയിലൂടെ നമുക്ക് ലിമിറ്റ് ½ ലഭിക്കുന്നു നേർരേഖയിൽ y എന്നത് x ന് തുല്യമാണ് ലിമിറ്റ് 0 ആണ് y x2 ന് തുല്യമാണ് ലിമിറ്റ് ½ ആണ് ഇപ്പോൾ x y 00 ലേക്ക് പോകുമ്പോൾ x2y x4 y2 എന്ന ലിമിറ്റ് നിലവിൽ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇത്തരത്തിലുള്ള രണ്ടാമത്തെ ഉദാഹരണം നമ്മൾ tan 1yx ന് ലിമിറ്റ് എടുക്കും xy 01 ലേക്ക് പോകുന്നു ഈ സാഹചര്യത്തിൽ നമുക്ക് വീണ്ടും ഈ xy തലം ഉണ്ട് നമ്മൾ 01 ലേക്ക് അടുക്കുന്നു x 0 y 1 നമ്മൾ വീണ്ടും രണ്ട് പാതകൾ എടുക്കും നമുക്ക് ഈ y വലതുവശത്ത് നിന്നോ ഇടത് വശത്തു നിന്നോ x ഈ പോയിന്റിലേക്ക് അടുക്കുമ്പോൾ ഈ രണ്ട് പാതകളും നമ്മൾ എടുക്കും ഈ പാതയിലൂടെ നമ്മൾ y 1 ആയി എടുക്കും തുടർന്ന് ഈ രണ്ട് പ്രത്യേക പാതകളിലൂടെ ഈ ലിമിറ്റ് നമ്മൾ വിലയിരുത്തും ഈ സാഹചര്യത്തിൽ നമ്മൾ y എന്നത് 1 ന് തുല്യമാണെന്ന് എടുക്കുകയും ഈ രണ്ട് ദിശകളിൽ നിന്ന് x 0 യെ സമീപിക്കുകയും ചെയ്യുക ഇടതുവശത്ത് നിന്ന് x 0 ലേക്ക് പോയാൽ tan 1 1x ലേക്ക് പോകുന്നു x നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക ഇവിടെ 1x ഈ നമ്പറുകളെല്ലാം നെഗറ്റീവ് ആയിരിക്കും x പൂജ്യത്തിലേക്ക് അടുക്കുമ്പോൾ ഈ 1x മൈനസ് അനന്തതയിലേക്ക് അടുക്കും tan 1 ∞ π2 ലഭിക്കും അതുപോലെ ഈ 01 പോയിന്റിന്റെ വലതുഭാഗത്ത് നിന്ന് ഈ പോയിന്റിനെ സമീപിച്ചാൽ ഈ സാഹചര്യത്തിൽ ഇത് അനന്തവും ഇത് tan 1 ∞ ആയി മാറും നമുക്ക് ലിമിറ്റ് π2 ആയി ലഭിക്കും ഈ ഉദാഹരണത്തിൽ ഞാൻ വീണ്ടും രണ്ട് വ്യത്യസ്ത പാതകളിലൂടെ രണ്ട് വ്യത്യസ്ത ലിമിറ്റ്കളുണ്ടെന്ന് കണ്ടു ഇവിടെ x y 01 ലേക്ക് പോകുന്നു ലിമിറ്റ് tan 1yx നിലവിൽ ഇല്ല കാരണം ഈ ലിമിറ്റ് പാതയെ ആശ്രയിച്ചിരിക്കുന്നു അടുത്ത ഉദാഹരണം xy ഓവർ x2 y2 x y 00 ലേക്ക് പോകുന്നുവെങ്കിൽ ഈ സാഹചര്യത്തിൽ നമ്മൾ ഒറിജിനിലേക്ക് അടുക്കുന്നു കൂടാതെ ഫംഗ്ഷൻ xy ഓവർ x2 y2 ആണ് നമ്മൾ ഒരു പൊതു പാത എടുക്കുന്നു y mx ന് തുല്യമാണ് അതിനർത്ഥം ഇവിടെ y എന്നത് mx ന് തുല്യമാണ് നമ്മൾ വ്യത്യസ്ത നേർരേഖകളിലൂടെ ഈ ഘട്ടത്തിലേക്ക് അടുക്കുന്നു ഈ നേർരേഖകളുടെ ചരിവ് വ്യത്യസ്തമാണ് m ന് ഏത് മൂല്യവും എടുക്കാം തുടർന്ന് ഈ നേർരേഖകളിലൂടെ 00 പോയിന്റിലേക്ക് നമ്മൾ അടുക്കുന്നു ഈ സാഹചര്യത്തിൽ ഇവിടെ ഈ ലിമിറ്റ് എന്തായിരിക്കും നമുക്ക് മുമ്പത്തെപ്പോലെ y mx ന് തുല്യമാണ് ഇവിടെ നമുക്ക് mx2x2m2x2 പിന്നീട് x2 റദ്ദാക്കപ്പെടും നമുക്ക് m1m2 ലഭിക്കും m ന്റെ വ്യത്യസ്ത മൂല്യങ്ങൾക്ക് നമുക്ക് മറ്റൊരു ലിമിറ്റ് ലഭിക്കുന്നു ലിമിറ്റ് പാതയെ ആശ്രയിച്ചിരിക്കുന്നു വീണ്ടും ഈ ലിമിറ്റ് നിലവിലില്ല അത്തരം ലിമിറ്റ് കണക്കാക്കുന്നതിനുള്ള ഒരു ബദൽ സമീപനം മറ്റൊരു കോർഡിനേറ്റ് സിസ്റ്റം ഉപയോഗിച്ചേക്കാം കാർട്ടീഷ്യൻ നിന്ന് പോളാർ കോർഡിനേറ്റുകളിലേക്ക് കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ മാറ്റം ഉപയോഗിക്കാം ഈ സാഹചര്യത്തിൽ x r cosθ ന് തുല്യമാണെന്നും y r sinθ ന് തുല്യമാണെന്നും നമുക്കറിയാം ഈ സാഹചര്യത്തിൽ നമ്മൾ ഇപ്പോൾ വ്യത്യസ്ത കോർഡിനേറ്റ് സിസ്റ്റത്തിലും പോളാർ കോർഡിനേറ്റിലും പ്രവർത്തിക്കും ഇവിടെ ഈ ലിമിറ്റ് x y 00 xy x2 y2 sinθ cosθ നൽകും കാരണം നമ്മൾ ഇവിടെ x മാറ്റുകയാണെങ്കിൽ നമ്മൾ r cosθ എന്നും y r sinθ എന്നും പകരം വയ്ക്കുന്നു എന്നിട്ട് x2 y2 r2 ആയി മാറും ഇവിടെ x y 00 എന്നതിലേക്ക് പോകുന്നത് r 0 ലേക്ക് എന്ന ലിമിറ്റാകും കാരണം പോളാർ കോർഡിനേറ്റിൽ ഇപ്പോൾ നമുക്ക് ഈ r ഉം ഇതാണ് തീറ്റ ഇത് r ആണ് തീറ്റയിൽ നിന്ന് വിഭിന്നമായി 0 ലേക്ക് r സമീപിക്കുകയാണെങ്കിൽ ഈ ഒറിജിനിലേക്ക് അനന്തമായി നമ്മൾ സമീപിക്കും ഇവിടെ ഈ ലിമിറ്റ് x y 00 ലേക്ക് പോകുന്നു ഈ ലിമിറ്റ് r 0 ലേക്ക് പോകുന്നതിന് തുല്യമായിരിക്കും sinθ r2 ഇത് റദ്ദാക്കപ്പെടും നമുക്ക് ഈ cosθ യും sinθ യും ലഭിക്കുന്നു ഈ ലിമിറ്റ് തീറ്റയെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് നമ്മൾ വീണ്ടും നിരീക്ഷിക്കുന്നു ഈ ലിമിറ്റ് സമീപിക്കുന്നതിനോ അല്ലെങ്കിൽ ഈ സ്ഥലത്തേക്കുള്ള ഈ സമീപനത്തിലേക്കോ നമ്മൾ മറ്റൊരു ആംഗിൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ മൂല്യം വ്യത്യസ്തമായിരിക്കും ലിമിറ്റ് വീണ്ടും ആംഗിൾ തീറ്റയെ ആശ്രയിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അത് പാതയെ ആശ്രയിച്ചിരിക്കുന്നു നമുക്ക് പറയാൻ കഴിയും അതിനാൽ ഇത് നിലവിലില്ല ഇന്നത്തെ പ്രഭാഷണത്തിൽ നാം മനസ്സിലാക്കുന്നത് പല സന്ദർഭങ്ങളിലും ഈ കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ മാറ്റം വളരെ സഹായകരമാണ് ഉദാഹരണത്തിന് x2y x2 y2 ഈ പ്രശ്നം നമ്മൾ പരിഗണിക്കുന്നു കൂടാതെ കോർഡിനേറ്റ് സിസ്റ്റം പോളറിലേക്ക് മാറ്റുകയാണെങ്കിൽ മുമ്പത്തെപ്പോലെ പകരമായി നമുക്ക് ഈ ലിമിറ്റ് എഴുതാം x2y ന് തുല്യമാണ് ലിമിറ്റ് വീണ്ടും r 0 x r2cos2θ y r sinθ ആണ് നമുക്ക് ഇവിടെ x2 വീണ്ടും r2cos2θ യും r2sin2θ യും ഉണ്ട് ഇത് r2 ആയി മാറും നമുക്ക് ലിമിറ്റ് r 0 ലേക്ക് പോകുന്നു ഇത് r ആണ് r2 റദ്ദാക്കപ്പെടും എന്നിട്ട് നമ്മൾക്ക് cos2തീറ്റയും sin തീറ്റയും ഉണ്ട് അത് ഇതിനകം തന്നെ റദ്ദാക്കിയ r2 ൽ വിഭജിച്ചിരിക്കുന്നു r സ്ക്വയറും തുടർന്ന് ഇവിടെ r സ്ക്വയറും ഇവ റദ്ദാക്കുകയും r 0 ലേക്ക് പോകുകയും ചെയ്യുന്നു തീറ്റയിൽ നിന്ന് വിഭിന്നമായി നമ്മൾ ഇവിടെ തീറ്റ ശരിയാക്കുന്നില്ല കാരണം തീറ്റയുടെ മൂല്യം എന്തുതന്നെയായാലും നമുക്ക് ഇവിടെ ഒരു പരിമിത സംഖ്യയുണ്ട് തുടർന്ന് r 0 ലേക്ക് പോകുന്നു ഇത് 0 ആയി മാറും ഈ സാഹചര്യത്തിൽ ഇവിടെ ഈ ലിമിറ്റ് 0 ആണ് കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് മാറ്റുന്നതിലൂടെ വിലയിരുത്തൽ എളുപ്പമായിരുന്നു ഇപ്പോൾ ലിമിറ്റ് 0 ആണെന്ന് നമ്മൾക്ക് നിഗമനം ചെയ്യാം കാരണം നമ്മൾ ഈ പാത നിശ്ചയിച്ചിട്ടില്ലെന്ന് നമ്മൾ വീണ്ടും ശ്രദ്ധിക്കുന്നു കാരണം ഇവിടെ ഈ ലിമിറ്റ് തീറ്റയിൽ നിന്ന് സ്വതന്ത്രമായി ലഭിച്ചു തീറ്റയുടെ മൂല്യം നിർണ്ണയിക്കാതെ നമുക്ക് ഈ 0 ലേക്ക് സമീപനമുണ്ട് ഈ ലിമിറ്റ് ഒരു പ്രത്യേക പാതയിലല്ല ഇത് പാതയിൽ നിന്ന് സ്വതന്ത്രമാണ് കോർഡിനേറ്റ് സംവിധാനം മാറ്റുന്നത് വളരെ സഹായകരമാണെന്ന് ഞാൻ പറഞ്ഞത് അതാണ് ഉദാഹരണത്തിന് ഈ പ്രത്യേക സാഹചര്യത്തിൽ y mx ന് തുല്യമാണെന്ന് ഒരാൾ വീണ്ടും ആശയക്കുഴപ്പത്തിലായേക്കാം എന്നാൽ ലിമിറ്റ് 0 ആയി നൽകും എന്നാൽ ഇവിടെ നമ്മൾ പാത്ത് ശരിയാക്കി y mx ന് തുല്യമാണ് 00 പോയിന്റിലേക്ക് അടുക്കുന്ന നേർരേഖകൾ ഈ x 0 ലേക്ക് പോകാൻ അനുവദിക്കുക തന്നിരിക്കുന്ന സംഖ്യയോ തന്നിരിക്കുന്ന ലിമിറ്റോ ഫംഗ്ഷന്റെ ലിമിറ്റാണെന്ന് നമ്മൾക്ക് തീരുമാനിക്കാൻ കഴിയില്ല എന്നാൽ ഈ സാഹചര്യത്തിൽ കോർഡിനേറ്റ് സിസ്റ്റം മാറ്റിക്കൊണ്ട് ഇപ്പോൾ നമ്മൾക്ക് മറ്റൊരു തുല്യമായ കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ട് ഇവിടെ നമ്മൾ ചില നമ്പറുകളിലേക്ക് സമീപിക്കുന്ന തീറ്റയിൽ നിന്ന് സ്വതന്ത്രമാണെങ്കിൽ കുറച്ച് ലിമിറ്റുകളുടെ ഉദാഹരണങ്ങളിലൂടെ നമ്മൾ ഇത് മനസ്സിലാക്കും തീറ്റയെ ആശ്രയിക്കേണ്ടതില്ല ഈ സാഹചര്യത്തിൽ ലിമിറ്റ് നിലവിലുണ്ട് ലിമിറ്റ് 0 ന് തുല്യമാണ് ഇവിടെ sin 1x2y 3x6y കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് മാറാതെ ഇത് മറ്റൊരു സമീപനമാണ് ഇത് x 2y ആണെന്നും ഇവിടെ tan 13x2y ആണെന്നും നമുക്ക് നിരീക്ഷിക്കാം നമ്മൾക്ക് x 2y എന്ന സമാന സംഖ്യയുണ്ട് ഇവിടെ 3x2y ഉം ഉണ്ട് x 2y നെ ഒരു പുതിയ പാരാമീറ്ററായി ഒരു പുതിയ വേരിയബിൾ t ആയി മാറ്റിസ്ഥാപിക്കുകയാണെങ്കിൽ തുടർന്ന് നമുക്ക് ഈ ലിമിറ്റ് sin 1t ലിമിറ്റ്ലേക്ക് പരിവർത്തനം ചെയ്യാൻ കഴിയും ഇത് t ലിമിറ്റ് tan 1 0 ലേക്ക് അടുക്കുകയും ചെയ്യുന്നു പാത പരിഗണിക്കാതെ ഇത് മറ്റൊരു സൌകര്യപ്രദമായ മാർഗമാണ് നമ്മൾ പാത പരിഗണിക്കുന്നില്ല എന്നാൽ ഈ ഫംഗ്ഷനിൽ എല്ലായിടത്തും ദൃശ്യമാകുന്ന x 2y ഈ ബന്ധം നമ്മൾ ഇവിടെ മാറ്റിസ്ഥാപിച്ചു ഇവിടെ ഇത് x 2y ഉം വീണ്ടും സമാന പ്രവർത്തനവുമായിരുന്നു എന്നാൽ 3x2y ഉപയോഗിച്ച് നമ്മൾ t മാറ്റിസ്ഥാപിച്ചു ഇത് 3t ആയി മാറുന്നു ഇപ്പോൾ നമുക്ക് കണക്കുകൂട്ടാൻ കഴിയുന്ന സിംഗിൾ വേരിയബിളിന്റെ ലിമിറ്റ്കളുടെ പ്രശ്നമായി നമ്മൾ പ്രശ്നം മാറ്റി ഈ സാഹചര്യത്തിൽ ഇത് 00 പോലെയാണ് നമുക്ക് എൽ ഹോസ്പിറ്റൽ റൂൾ പ്രയോഗിക്കാൻ കഴിയും ഇത് 1 ഓവർ സ്ക്വയർ റൂട്ട് 1 t2 ആണ് പിന്നീട് ഇവിടെ ഇത് 3 ഉം 1 ഉം 9t2 ഉം ആയിരിക്കും എന്നിട്ട് ലിമിറ്റ് 0 ലേക്ക് പോകുന്നു ഇതിൽ t 0 ലേക്ക് പോകുന്നു അത് 1 ആയിരിക്കും തുടർന്ന് നമുക്ക് ഇവിടെ 3 ഉണ്ട് ഈ ലിമിറ്റ് 13 ആയിരിക്കും വീണ്ടും ഇത് മറ്റൊരു സമീപനമാണ് രണ്ട് വേരിയബിളുകളുടെ ഫംഗ്ഷനുകൾ ഒരു വേരിയബിളിലേക്ക് മാറ്റാൻ ചില സന്ദർഭങ്ങളിൽ ഇത് സഹായകമാകും ലിമിറ്റ്കൾക്കൊപ്പം പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് ഇപ്പോൾ കുറച്ച് പരാമർശങ്ങൾ f x y ലിമിറ്റ് L1 ലും x y x0 ലേക്ക് L2 ഉം ആയി പോയാൽ നമുക്ക് എന്താണ് ഈ രണ്ട് ലിമിറ്റ്കളും നൽകിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ k തവണ കണക്കാക്കാം f x y x y x 0 y 0 ലേക്ക് പോകുമ്പോൾ fx y ന്റെ ലിമിറ്റ് k ഇരട്ടിയാണ് ഈ k ഒരു കോൺസ്റ്റന്റ് ആണ് ഈ ലിമിറ്റ് kL1 ആയിരിക്കും വീണ്ടും ഈ f x y പ്ലസ് അല്ലെങ്കിൽ മൈനസ് g x y എന്നിവ ചേർക്കുമ്പോൾ നമുക്ക് അവിടെ പരിമിതമായ അളവുകളുണ്ട് L1 L2 അപ്പോൾ ഈ ലിമിറ്റ് L1 L2 എന്നായിരിക്കും L1 പ്ലസും മൈനസും പ്ലസ് ആണെങ്കിൽ ഇവിടെ പ്ലസ് ദൃശ്യമാകും ഇത് ഇവിടെ ഒരു മൈനസ് ആണെങ്കിൽ മൈനസ് L2 വരും ഇപ്പോൾ fxy എന്ന രണ്ട് ഫംഗ്ഷനുകളുടെ പ്രോഡക്റ്റ് gx y ആക്കി ഇത് L1 L2 എന്നിവയുടെ പ്രോഡക്റ്റ്മായിരിക്കും fxygx y എന്ന ഘടകം ഇവിടെ ഉണ്ടെങ്കിൽ ഈ സാഹചര്യത്തിൽ നമുക്ക് 0 കൊണ്ട് ഹരിക്കാനാവില്ല L2 പൂജ്യമല്ലെങ്കിൽ ഈ ലിമിറ്റ് L1 L2 ആയിരിക്കും ഈ പ്രവർത്തന നിയമങ്ങളുടെ കുറച്ചുകൂടി സാമാന്യവൽക്കരണം നമ്മൾക്ക് അവിടെ അനന്തത ഉള്ളപ്പോൾ പ്രവർത്തിക്കാനും കഴിയും ഈ ലിമിറ്റ് f x y x y x 0 y 0 എന്നതിലേക്ക് പോയാൽ അനന്തമാണ് ഇവിടെ x y എന്നതിലേക്ക് x 0 y 0 പോകുന്ന ഈ g x y ന്റെ ലിമിറ്റ് അനന്തമാണ് അങ്ങനെയാണെങ്കിൽ f x y g x y x y x 0 y 0 ലേക്ക് പോകുമ്പോൾ ഈ രണ്ട് ഫംഗ്ഷനുകളുടെയും പ്രോഡക്റ്റ്ന്റെ ഈ ലിമിറ്റ് നമുക്ക് കണക്കാക്കാം അനന്തവും ഇവിടെയും നമുക്ക് പ്ലസ് അനന്തവും അനന്തതയും ഉണ്ട് ഈ ലിമിറ്റ് പ്ലസ് അനന്തവും ആയിരിക്കും നമുക്ക് രണ്ട് ഫംഗ്ഷനുകളും ചേർത്ത് x y x 0 y 0 എന്നതിലേക്ക് ലിമിറ്റ് എടുക്കാം ഇത് അനന്തവും അനന്തവുമായിരിക്കും അത് വീണ്ടും അനന്തമാണെന്ന് നമുക്കറിയാം ഇവിടെ നമുക്ക് ലിമിറ്റ് അനന്തതയും ഉണ്ട് x y x 0 y 0 ലേക്ക് പോകുമ്പോൾ g മൈനസ് അനന്തതയിലേക്ക് അടുക്കുന്നു ഈ സാഹചര്യത്തിൽ ഒന്ന് മൈനസ് അനന്തമായതിനാൽ മറ്റൊന്ന് പ്ലസ് അനന്തമാണ് പ്രോഡക്റ്റ് മൈനസ് ചിഹ്നം ഉപയോഗിച്ച് വീണ്ടും അനന്തമായിരിക്കും കാരണം ഒന്ന് നെഗറ്റീവ് ഒന്ന് പ്ലസ് പ്ലസ് മൈനസ് ഒന്ന് എന്നിവ മൈനസ് ഒന്നാണ് തുടർന്ന് ഇവിടെ നമുക്ക് അനന്തതയുണ്ട് ഇത് അനന്തതയിലേക്ക് അടുക്കും നമുക്ക് f x y ഉണ്ടെങ്കിൽ അനന്തതയിലേക്ക് പോകുകയും g x y ചില പരിമിത യഥാർത്ഥ സംഖ്യയിലേക്ക് അടുക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഈ സാഹചര്യത്തിൽ നമുക്ക് അത്തരം ലിമിറ്റ്കൾ f x y പ്ലസ് അല്ലെങ്കിൽ മൈനസ് g x y ഇത് ഇതിനകം അനന്തമായതിനാൽ നമുക്ക് ഇവിടെ g x y L ന് തുല്യമാണ് ഇത് ഒരു പരിമിത സംഖ്യയായിരിക്കുന്നിടത്തോളം ഈ നമ്പർ എന്താണെന്നത് പ്രശ്നമല്ല അപ്പോൾ ഈ ലിമിറ്റ് അനന്തമായിരിക്കും രണ്ടാമതായി നമുക്ക് അനന്തത ഉണ്ടെങ്കിൽ ഈ ലിമിറ്റ് L പോസിറ്റീവ് ആണ് ഈ സാഹചര്യത്തിൽ നമുക്ക് പ്രോഡക്റ്റ് നിയമത്തിനായി പോകാം ലിമിറ്റ് x y x 0 y 0 f x y g x y എന്നിവയിലേക്ക് പോകുന്നു ഈ L പോസിറ്റീവ് ആയതിനാൽ ഈ പ്രോഡക്റ്റ് തുല്യമായിരിക്കും ചിഹ്നം മാറില്ല അത് അനന്തമായിരിക്കും ഇവിടെ നമുക്ക് f x y അനന്തതയിലേക്ക് അടുക്കുന്നു കൂടാതെ ഈ g xy L നെ സമീപിക്കുന്നത് ഒരു നെഗറ്റീവ് സംഖ്യയാണ് അങ്ങനെയാണെങ്കിൽ fxy മുതലുള്ള ഈ പ്രോഡക്റ്റ് അനന്തതയിലേക്ക് അടുക്കുന്നു പ്രോഡക്റ്റ് അനന്തതയിലേക്ക് പോകും എന്നാൽ ഈ നെഗറ്റീവ് എൽ കാരണം ഇത് മൈനസ് അനന്തതയിലേക്ക് അടുക്കും ഇപ്പോൾ f x y അനന്തതയിലേക്ക് അടുക്കുന്നുവെങ്കിൽ g x y ഒരു യഥാർത്ഥ സംഖ്യയാണെങ്കിൽ ലിമിറ്റ് ഒരു യഥാർത്ഥ സംഖ്യയാണ് അങ്ങനെയാണെങ്കിൽ ഇവിടെ f x y ന് മുകളിലുള്ള g x y എന്ന ഘടകം ഇവിടെ ഈ f x y അനന്തതയിലേക്ക് പോകുന്നു g x y എന്നത് ചില സംഖ്യ L ആണ് ഈ സാഹചര്യത്തിൽ ഈ ലിമിറ്റ് 0 ആയിരിക്കും ഇന്ന് നമ്മൾ കണ്ടത് രണ്ട് വേരിയബിളുകളുടെ കാര്യത്തിൽ നമുക്ക് ലിമിറ്റ് രണ്ടായി വിലയിരുത്താൻ കഴിയും പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം xy തലം ഇപ്പോൾ നമുക്ക് ഒരു പ്രത്യേക പോയിന്റിലേക്ക് പല ദിശകളിൽ നിന്ന് സമീപിക്കാൻ കഴിയും അതേസമയം ഒരു വേരിയബിളിന്റെ കാര്യത്തിൽ നമുക്ക് വലതുഭാഗത്ത് നിന്ന് ഇടത് വശത്ത് നിന്ന് രണ്ട് ദിശകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ നമുക്ക് അനന്തമായി നിരവധി ദിശകൾ ഒരു പ്രത്യേക ദിശയിലുള്ള കമ്പ്യൂട്ടിംഗ് ലിമിറ്റ് സഹായിക്കില്ല പക്ഷേ ലിമിറ്റ്കൾ വ്യത്യസ്തമായ രണ്ട് ദിശകളെങ്കിലും കണ്ടെത്തിയാൽ ലിമിറ്റ് നിലവിലില്ലെന്ന് നമുക്ക് നിഗമനം ചെയ്യാം രണ്ടോ അതിലധികമോ പാതകളിലൂടെ ലിമിറ്റ് പരിമിതപ്പെടുത്തിക്കൊണ്ട് നമ്മൾക്ക് ഈ നിഗമനത്തിലെത്താൻ കഴിയില്ല ആ ലിമിറ്റ് നിരവധി പാതകളിലായിരിക്കാമെങ്കിലും ലിമിറ്റ് കണക്കാക്കിയാൽ പോളാർ കോർഡിനേറ്റിലേക്ക് മാറുന്ന രണ്ട് സമീപനങ്ങളെ നമ്മൾ സഹായിക്കും അങ്ങനെയാണെങ്കിൽ r 0 ലേക്ക് അടുക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന് ചോദ്യത്തിലെ ലിമിറ്റ് ഒറിജിനിലേക്ക് അടുക്കുകയാണെങ്കിൽ r തീറ്റയിൽ നിന്ന് സ്വതന്ത്രമായി 0 ലേക്ക് അടുക്കുന്നുവെന്ന് നമുക്ക് പറയാം നമുക്ക് ലഭിക്കുന്ന ഏത് നമ്പറും പാതയെ ആശ്രയിക്കുന്നില്ല അതാണ് ലിമിറ്റ് പല സാഹചര്യങ്ങളിലും ഒരു സംഖ്യയെ ഒരു വേരിയബിൾ പ്രശ്നമാക്കി മാറ്റാൻ നമ്മൾ കണ്ട മറ്റൊരു സമീപനം തുടർന്ന് ലിമിറ്റ് നിർണ്ണയിക്കാൻ നമുക്ക് L'Hospital നിയമം പ്രയോഗിക്കാൻ കഴിയും പോളാർ കോർഡിനേറ്റി ലേക്ക് മാറുന്നത് ലിമിറ്റ് വിലയിരുത്തുന്നതിന് സഹായകമാകുമെന്ന് അടുത്ത പ്രഭാഷണത്തിൽ വീണ്ടും കാണാം R എന്നത് 0 ലേക്ക് പോകുമ്പോൾ ലിമിറ്റ് എടുക്കുമ്പോൾ അത് ആംഗിൾ തീറ്റയെ ആശ്രയിക്കരുത് എന്ന കാര്യം നാം വീണ്ടും ശ്രദ്ധിക്കണം തീറ്റയിൽ നിന്ന് സ്വതന്ത്രമായി നമ്മൾ ചില സംഖ്യകളിലേക്ക് അടുക്കുകയാണെങ്കിൽ അതാണ് ലിമിറ്റ് എന്ന് നമുക്ക് നിഗമനം ചെയ്യാം എന്നാൽ ആ ലിമിറ്റ് തീറ്റയെ ആശ്രയിച്ചിരിക്കുന്നുവെങ്കിൽ വീണ്ടും അത് ഒരു പാതയെ ആശ്രയിച്ചുള്ള ലിമിറ്റാണ് ലിമിറ്റ് നിലവിലില്ല കോർഡിനേറ്റ് സിസ്റ്റത്തെ പോളാർ കോർഡിനേറ്റിലേക്കും പിന്നീട് കൂടുതൽ ഉദാഹരണങ്ങളിലേക്കും മാറ്റുമ്പോൾ എന്താണ് പ്രശ്നമെന്ന് നമ്മൾ കൂടുതൽ സംസാരിക്കും ഈ പ്രഭാഷണങ്ങൾ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന റഫറൻസുകളാണ് ഇത് നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വളരെ നന്ദി